നമസ്തേ നമ്മുടെ മുൻ ഭാഗങ്ങളിൽ നമ്മൾ സി വി പി യെക്കുറിച്ചും അതിന്റെ പ്രയോഗ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ വിൽപ്പന മിശ്രണം ഉൽപ്പന്ന ആസൂത്രണം എന്നിവ ഉൾപ്പെടുന്ന വിവിധ തീരുമാനമെടുക്കൽ കേസുകൾ കണ്ടു ഒരു പ്രധാന ഘടകത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനെ കുറിച്ചും നമ്മളുടെ അവസാന ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ലാഭ ആസൂത്രണം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കേസ് കൂടി നമുക്ക് ഇപ്പോൾ ചെയ്യാം വ്യത്യസ്ത തീരുമാന സാഹചര്യങ്ങൾ ആ തീരുമാന സാഹചര്യങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ദയവായി നിങ്ങളുടെ പക്കലുള്ള കടലാസ് എടുക്കുക പ്രശ്നം എന്നോടൊപ്പം വായിക്കുക എന്നോടൊപ്പം അത് പരിഹരിക്കാൻ ശ്രമിക്കുക നമുക്ക് ആരംഭിക്കാം പ്രണവ് കെമിക്കൽസിന്റെ ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വിവരം ഇപ്രകാരമാണ് നേരിട്ടുള്ള സാമഗ്രികൾ 30 നേരിട്ടുള്ള വേതനം 24 ഉൽപ്പാദന ഓവർഹെഡ് വേരിയബിൾ 18 ഈ മൂന്നും യൂണിറ്റ് അടിസ്ഥാനത്തിൽ ആണ് നിശ്ചിത ഉൽപ്പാദന ഓവർഹെഡ് മൊത്തത്തിൽ 3000000 അഡ്മിൻ ചെലവ് വീണ്ടും നിശ്ചയിച്ചിരിക്കുന്നത് 1800000 വിൽപ്പനയും വിതരണവും 1800000 വിൽപ്പന വില ഒരു യൂണിറ്റിന് 152 ആണ് ഇപ്പോൾ കമ്പനി 25 ശതമാനം സുരക്ഷാ മാർജിനിൽ പ്രവർത്തിക്കുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിനാൽ പലപ്പോഴും കമ്പനിയിലെ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത തലത്തിലുള്ള മാനേജർമാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു സ്വാഭാവികമായും മാനേജ്മെന്റ് ലാഭം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിനാൽ തീരുമാനമെടുക്കുന്നതിന് ഓരോ തീരുമാന സാഹചര്യങ്ങൾക്കും ലാഭക്ഷമതാ പി വി അനുപാതം ബി ഇ പി കണക്കാക്കുന്നത് പ്രധാനമാണ് അതിനാൽ വ്യത്യസ്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് വിൽപ്പനയുടെ അളവ് 10 ശതമാനം വർദ്ധിപ്പിക്കുകയും പരസ്യച്ചെലവ് 200000 നൽകുകയും ചെയ്യും തുടർന്ന് നിശ്ചിത ഉൽപ്പാദനവും വിൽപ്പന വിതരണ ഓവർഹെഡുകളും യഥാക്രമം 200000 95000 വർദ്ധിക്കും മൊത്തം 2500000 ലാഭം നേടുന്നതിന് വിൽപ്പന വില എത്രയായിരിക്കണം ഓരോ നിർദ്ദേശവും പ്രത്യേകമാണെന്ന് ഓർക്കുക വിൽപ്പന വില 5 ശതമാനം കുറയ്ക്കാനുള്ള രണ്ടാമത്തെ നിർദ്ദേശം അളവ് 20 ശതമാനം വർദ്ധിപ്പിക്കും നിശ്ചിത ഉൽപ്പാദന ഓവർഹെഡുകൾ 300000 വർദ്ധിക്കും നിശ്ചിത വിൽപ്പന വിതരണ ഓവർ ഹെഡുകൾ 200000 വർദ്ധിക്കും 300000 പരസ്യച്ചെലവ് ആവശ്യമാണ് അത് ലാഭത്തിൽ സ്വാധീനം കണ്ടെത്തും മൂന്നാമത്തേത് പരസ്യങ്ങൾക്കായി 200000 ചിലവഴിച്ച് വിൽപ്പന വില 10 ശതമാനം വർദ്ധിപ്പിക്കുക നിശ്ചിത ഉൽപ്പാദന ഓവർഹെഡുകൾ 200000 വർദ്ധിക്കും സ്ഥിര വിൽപ്പനയും വിതരണവും 100000 വർദ്ധിക്കും ബഡ്ജറ്റിനെക്കാൾ 10 ശതമാനം കൂടുതൽ ലാഭം നേടുന്നതിന് യൂണിറ്റുകളിൽ ആവശ്യമായ വിൽപ്പനയുടെ അളവിൽ വർദ്ധനവ് കണ്ടെത്തുക കൂടാതെ നാലിലൊന്ന് നിർദ്ദേശം കൂടിയുണ്ട് നമുക്ക് ഇപ്പോൾ ആദ്യത്തെ 3 നിർദ്ദേശങ്ങൾ എടുക്കാം അതിനാൽ നിങ്ങൾക്ക് ഇതിനകം ഒരു ബഡ്ജറ്റ് ആദ്യം അത് ശരിയായ ഘടനയിൽ ഇടുകയും ബഡ്ജറ്റിന് അനുസൃതമായി ലാഭം കണക്കാക്കുകയും തുടർന്ന് ആവശ്യത്തിന് നിരകൾ ഉണ്ടാക്കുകയും ചെയ്യാം ആദ്യം നിലവിലുള്ള ബഡ്ജറ്റിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് നമ്മൾ നിർദ്ദേശം 1 2 3 എന്നിവയിലേക്ക് പോകും അതിനാൽ നിങ്ങൾക്കായി ഞാൻ എക്സൽ ഷീറ്റിലേക്ക് മാറുന്നു ദയവായി നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ബഡ്ജറ്റ് ശരിയായ രൂപ ഘടനയിൽ ഉണ്ടാക്കുക വിൽപ്പനയിൽ നിന്ന് ആരംഭിക്കുന്ന ശരിയായ ഘടന നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തുടർന്ന് വേരിയബിൾ ചെലവ് കുറയ്ക്കുകയും സംഭാവന നേടുകയും ലാഭം കണക്കാക്കുകയും ചെയ്യും അതുകൊണ്ട് ദയവായി ഇത് ആ ഘടനയിൽ തന്നെ ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇതിന് ഞാൻ പരിഹാരം കാണേണ്ട ആവശ്യമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയും അതിനാൽ ആദ്യം ബജറ്റിൽ തുടങ്ങാം നമ്മൾ ആകെ ഡിഎം എടുത്തിട്ടുണ്ട് തുടർന്ന് ഡിഎൽ അഥവാ നേരിട്ടുള്ള തൊഴിൽ വേരിയബിൾ ഓവർഹെഡ്സ് ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള വേരിയബിൾ ചെലവ് എന്നിവ 72 ആണ് വില്പന വില എടുത്തശേഷം സംഭാവന കാണുക വില്പന വില 152 ആണ് അതിനാൽ സംഭാവന 80 അതായത് എസ് പി യിൽ നിന്ന് വി സി കുറയ്ക്കുന്നത് യൂണിറ്റുകളുടെ എണ്ണം എത്രയാണ് അത് നൽകിയിട്ടുണ്ടോ നിശ്ചിത ചെലവ് നൽകിയിട്ടുണ്ടെങ്കിലും അത് നൽകുന്നില്ല അതിനാൽ നമുക്ക് നിശ്ചിത ചെലവുകൾ എഴുതാം മൊത്തം ചെലവ് കൂടി എഴുതുന്നതിന്റെ കാരണം 3 നിശ്ചിത ചെലവുകൾ നമ്മൾക്കറിയാം അതിനാൽ ചെലവ് ഘടന ലഭ്യമാണ് നിങ്ങൾക്ക് വിൽക്കുന്ന വില അറിയാം സംഭാവന അറിയാം നിശ്ചിത ചെലവുകൾ അറിയാം പ്രവർത്തനത്തിന്റെ തോത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം യൂണിറ്റുകളുടെ എണ്ണം നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആർക്കെങ്കിലും ഒരു നിർദ്ദേശമുണ്ട് ദയവായി പ്രശ്നം ഒരിക്കൽ കൂടി ശ്രദ്ധാപൂർവ്വം വായിക്കുക നിലവിലെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് മറ്റെന്താണ് നൽകുന്നത് 25 ശതമാനം സുരക്ഷയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് അവർ നിങ്ങൾക്ക് സൂചന നൽകി ഇപ്പോൾ എം ഓ എസ് ന്റെ സൂത്രവാക്യം എന്താണ് ഇത് വിൽപ്പനയിൽ നിന്ന് ബി ഇ പി കുറച്ച് അതിനെ വിൽപ്പന അഥവാ യഥാർത്ഥ വില്പനകൊണ്ട് ഹരിക്കുക യഥാർത്ഥ വിൽപനയും ബി ഇ പി യും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് ബി ഇ പി കണക്കാക്കാമോ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ സൂത്രവാക്യം ഓർക്കുന്നുവെങ്കിൽ അത് നിശ്ചിത ചെലവിനെ യൂണിറ്റ് സംഭാവന കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് നിശ്ചിത ചെലവ് അറിയാം നിങ്ങൾക്ക് സംഭാവന അറിയാം അതിനാൽ നിങ്ങൾക്ക് ബി ഇ പി കണക്കാക്കാം കൂടാതെ എം ഓ എസിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ 25 ശതമാനമാണെന്ന് നിങ്ങൾക്കറിയാം ബിഇപി യും നിങ്ങൾക്ക് അറിയാം നിലവിലുള്ള വിൽപ്പന 100 ആണെങ്കിൽ ബി ഇ പി 75 ആണെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ വിൽപ്പനയും കണക്കാക്കാം ബി ഇ പി എന്നത് എഫ് സി യിൽ നിന്നും പി വി ആർ കുറയ്ക്കുന്നതാണ് യൂണിറ്റുകളുടെ എണ്ണം നിങ്ങൾക്കറിയില്ല എന്നാൽ നിങ്ങൾക്ക് പി വി അനുപാതം കണക്കാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം കാരണം വിൽപ്പനയിലെ സംഭാവന പി വി ആർ ആണ് പി വി ആർ 0 5263 ആണ് പി വി ആർ നു മേലുള്ള എഫ് സി നിങ്ങൾക്ക് 12540000 ബി ഇ പി നൽകുന്നു വിൽപ്പന 0 75 ൽ ബി ഇ പി യ്ക്ക് തുല്യമാണെന്ന് നമ്മൾക്കറിയാം കാരണം സുരക്ഷയുടെ മാർജിൻ 25 ശതമാനമാണ് ഇത് വിൽപനയിലെ എം ഓ എസിനു തുല്യമാണ് കൂടാതെ എം ഓ എസ് വിൽപ്പനയിൽ നിന്ന് ബി ഇ പി കുറയ്ക്കുന്നതിനു തുല്യമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിൽപ്പന 0 75 ന് ബി ഇ പി യ്ക്ക് തുല്യമാണ് അതിനാൽ നിങ്ങൾക്ക് വിൽപ്പന കണക്കാക്കാം അത് 16720000 ആണ് നിങ്ങൾക്ക് അത് നേടാൻ കഴിയുമോ ഇപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് വീണ്ടും പ്രവർത്തിക്കാനും യൂണിറ്റുകളുടെ എണ്ണം കണക്കാക്കാനും മറ്റ് കാര്യങ്ങൾ കണക്കാക്കാനും കഴിയും അതിനാൽ നിങ്ങൾ യൂണിറ്റുകളുടെ എണ്ണം കണക്കാക്കിയാൽ നിങ്ങൾക്ക് 110000 ലഭിക്കും കാരണം വിൽപ്പന വില നിങ്ങൾക്ക് അറിയാം മൊത്തം വിൽപ്പന നിങ്ങൾക്ക് അറിയാം അതിനാൽ വിൽക്കുന്ന വിലയിലെ മൊത്തം വിൽപ്പന നിങ്ങൾക്ക് യൂണിറ്റുകളുടെ എണ്ണം 110000 ആയി നൽകുന്നു മൊത്തം സംഭാവന 880000 ആണ് കാരണം 80 ഗുണം 110 ആണ് 8 ക്ഷമിക്കണം 8800000 ൽ നിന്നും 6600000 കുറയ്ക്കുമ്പോൾ എനിക്ക് 2200000 ലാഭം ലഭിക്കുന്നു നിങ്ങൾക്കെല്ലാം ഇത് ശരിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇതാണ് ആരംഭ ബിന്ദു ഒന്നാമതായി നമ്മളുടെ പക്കൽ ലഭ്യമായതെല്ലാം നിലവിലെ ബഡ്ജറ്റ് ആണ് നമ്മൾ ഇത് ശരിയായ ഘടനയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ നിർദേശങ്ങളിലേക്ക് പോകാം ഇപ്പോൾ നിർദ്ദേശം 1 നിർദ്ദേശം 1 എന്നത് വിൽപ്പന അളവിൽ വർദ്ധനവ് ഉൾക്കൊള്ളുന്ന ഒരു നിർദ്ദേശമാണ് അവർ പരസ്യത്തിനായി കൂടുതൽ ചെലവഴിക്കുന്നു വിൽപ്പനയുടെ അളവ് വർധിക്കുന്നത് കാരണം മറ്റ് ഓവർഹെഡുകൾ പോലും വർധിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ 2500000 ലാഭ ലക്ഷ്യം നേടുന്നതിനായി നമ്മൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിൽപ്പന വില കണക്കാക്കുക അപ്പോൾ മാനേജ്മെന്റ് 2200000 ത്തിന്റെ വിൽപ്പനയിൽ സന്തുഷ്ടരായിരിക്കില്ല ക്ഷമിക്കണം 2200000 ലാഭത്തിൽ അവർ നൽകിയിട്ടുള്ള തുകയിൽ മാറ്റം വരുത്തി കൂടുതൽ ലാഭം നേടാൻ ആഗ്രഹിക്കുന്നു ശരിയല്ലേ വില്പന വില നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ നമുക്ക് സംഭാവന കണക്കു കൂട്ടാൻ കഴിയില്ല നമുക്കറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ നേർവിപരീത ലാഭമായ 2500000 ആണ് കൂടാതെ നമുക്ക് നിശ്ചിത ഓവർഹെഡുകളുടെ പുതിയ തലം കണക്കാക്കാൻ കഴിയും അപ്പോൾ അത് കണക്കുകൂട്ടുക ഉൽപ്പാദന ഓവർഹെഡ് 2200000 വർദ്ധിക്കും അഡ്മിൻ ഓവർഹെഡ് മാറ്റമില്ലാതെ തുടരും വിൽപന ഓവർഹെഡിലും വർദ്ധനവുണ്ടാകും നമ്മൾ പരസ്യവും മറ്റ് വർദ്ധനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഓവർഹെഡുകളുടെ വിൽപ്പനയിൽ 295000 വർധനവുണ്ടായി 2095000 ആയി മൊത്തം നിശ്ചിത ചെലവ് 7095 ആണ് അതിനാൽ 2500000 ലാഭവും 7095000 ഒരു നിശ്ചിത ചെലവും നമ്മൾക്ക് വില്പന വില അറിയില്ല വാസ്തവത്തിൽ വിൽപ്പന വില കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾക്ക് ലാഭവും എഫ്സി യും അറിയാവുന്നതിനാൽ ആദ്യമായി മൊത്തം സംഭാവന കണക്കാക്കുന്നതിനായി നമ്മൾക്ക് തിരികെ പ്രവർത്തിക്കാം 25 അധികം 7095 നിങ്ങൾക്ക് 9595 ലഭിക്കും യൂണിറ്റുകളുടെ എണ്ണം നിങ്ങൾക്കറിയാമോ അറിയാം കാരണം ഇവിടെ നോക്കൂ വിൽപ്പന അളവിൽ 10 ശതമാനം വർധനവുണ്ടായി എന്നാണ് നൽകിയിരിക്കുന്നത് അതിനാൽ നിങ്ങൾ 10 ശതമാനം ചേർത്താൽ നിങ്ങൾക്ക് യൂണിറ്റുകളുടെ എണ്ണമായി 121000 ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ പ്രവർത്തിച്ച് സംഭാവന ശരിയായി കണക്കാക്കാം അതായത് ഈ ലാഭം നേടുന്നതിനും ഈ ചെലവുകൾ പരിപാലിക്കുന്നതിനും നിങ്ങൾ 79 30 സംഭാവന നേടണം ഇപ്പോൾ നിങ്ങൾക്ക് വിൽപ്പന വില തിരികെ നൽകാം അതിനാൽ വിൽപ്പന വില നിങ്ങൾക്ക് ലഭിക്കുന്നത് 151 30 ആണ് ഒരുപക്ഷെ മാനേജ്മെന്റ് പരിശോധിക്കേണ്ട സമയമാണ് ഈ നിർദ്ദേശത്തിൽ വിൽപ്പന വിലയുടെ വർദ്ധനവ് ആവശ്യമാണോ എന്നാൽ വിൽപ്പന വില ബഡ്ജറ്റിലെ പോലെ തന്നെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇപ്പോൾ മാനേജ്മെന്റ് സന്തോഷിക്കും കാരണം അവർക്ക് അധിക ലാഭം ലഭിക്കുന്നതിനാൽ അധിക നിശ്ചിത ചെലവുകൾ ശ്രദ്ധിക്കുന്നു വിൽപ്പന വില വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം വിൽപ്പന യൂണിറ്റുകൾ വർദ്ധിച്ചു നമ്മളുടെ സംഭാവന കൂടുതലാണ് അത് ശ്രദ്ധിക്കുന്നതിനാൽ അധിക വില്പന ചെലവിന്റെ പി വി അനുപാതവും നമ്മൾ കണക്കാക്കും അതിനാൽ നിങ്ങൾക്ക് 0 5241 ന്റെ പി വി അനുപാതം ലഭിക്കും അത് ഏതാണ്ട് സമാനമാണ് അതിനാൽ നിർദ്ദേശം 1ൽ മാനേജ്മെന്റ് കൂടുതൽ ശല്യപ്പെടുത്തില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കില്ല കാരണം ഇതൊരു ചർച്ചയാണ് നിർദ്ദേശം 1ന്റെ പരിഹാരം 151 30 ആണ് അതിനാലാണ് ഞാനിത് ധൈര്യമായി നിർമ്മിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ നിർദ്ദേശത്തിലേക്ക് പോകാം ഇപ്പോൾ ഇത് ശ്രദ്ധാപൂർവ്വം വായിക്കുക ഇത് വിൽപ്പന വില കുറയ്ക്കൽ ഉൾപ്പെടുന്ന ഒരു നിർദ്ദേശമാണ് കാരണം കമ്പനി വിൽപ്പന 20 ശതമാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അവർ വിൽപ്പന വില കുറയ്ക്കാൻ നിർദ്ദേശിച്ചതിനാൽ പരസ്യത്തിന് ചില അധിക ചെലവുണ്ടാകും ഇപ്പോൾ മാനേജ്മെന്റ് ലാഭത്തിലെ സ്വാധീനം അറിയാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു പട്ടികയിലേക്ക് പോകുക വേരിയബിൾ ചെലവുകൾ മാറുന്നില്ല അതിനാൽ ഞാൻ അവ സ്ഥിരമായി നിലനിർത്തി വിൽപ്പന വില കുറയ്ക്കാൻ കമ്പനി തീരുമാനിച്ചു അതിനാൽ ഇപ്പോൾ വിൽക്കുന്ന വില അവർക്കറിയാം ഓർക്കുക കുറവ് വരുന്ന വിസ വി ആണ് ബഡ്ജറ്റ് അത് അവസാന കൊളമല്ല അതിനാൽ 152 ൽ നിന്നുള്ള ബഡ്ജറ്റിൽ നിന്ന് നിങ്ങൾ വിൽപ്പന വില 5 ശതമാനം കുറച്ചാൽ അത് 144 4 ആയി മാറും പുതിയ യൂണിറ്റുകളുടെ എണ്ണം എന്തായിരിക്കും എന്തായാലും ആദ്യം നിങ്ങൾക്ക് പുതിയ സംഭാവന കണക്കാക്കാം അത് എസ് പി യിൽ നിന്നും വി സി കുറയ്ക്കുന്നതാണ് അപ്പോൾ 72 4 യൂണിറ്റുകളുടെ പുതുക്കിയ എണ്ണം എന്തായിരിക്കും നിലവിലെ യൂണിറ്റുകളിൽ നിന്ന് 20 ശതമാനം വർദ്ധനവ് ഉണ്ട് അതിനാൽ 132000 ആണ് പുതിയ യൂണിറ്റുകൾ നിങ്ങൾക്ക് പുതിയ മൊത്തം സംഭാവന 9556 ആയി കണക്കാക്കാം ഇപ്പോൾ ഓരോ ഓവർഹെഡും എടുത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിശ്ചിത ഓവർഹെഡുകൾ വർദ്ധിപ്പിക്കുക അതിനാൽ അതിന്റെ ഉൽപ്പാദനം 300000 വർദ്ധിക്കുന്നു അത് 3300000 ആയി മാറുന്നു അഡ്മിൻ മാറ്റമില്ലാതെ തുടരുന്നു വിൽപന ഓവർഹെഡുകൾ 200000 ആയി വർധിച്ചു ഒപ്പം 300000 ത്തിന്റെ പരസ്യവും അപ്പോൾ 2300000 അപ്പോൾ എന്താണ് മൊത്ത ഓവർഹെഡ് പുതിയ ആകെ നിശ്ചിത ഓവർഹെഡ് 7400000 ആണ് ലാഭം 2156000 നേർവിപരീതമായ പി വി ആർ എത്രയാണ് അത് 0 5014 ആണ് അപ്പോൾ രണ്ടാമത്തെ നിർദ്ദേശം എങ്ങനെയുണ്ട് ഇപ്പോൾ മാനേജ്മെന്റ് അത്ര സന്തുഷ്ടരല്ലെന്ന് തോന്നുന്നു കാരണം വില്പന വിലയിലെ കുറവ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് പി വി അനുപാതം കുറച്ചുകൂടി കുറഞ്ഞിരിക്കുന്നു എന്നാണ് പല നിശ്ചിത ഓവർഹെഡുകളും വർദ്ധിച്ചു അതിനാൽ കമ്പനിയുടെ ലാഭ ലക്ഷ്യം 25 ആയി വർദ്ധിക്കുന്നതിന് പകരം ചെറുതായി കുറഞ്ഞു വാസ്തവത്തിൽ ലാഭവും ഇടിവുമുണ്ട് എന്നാൽ നിർദ്ദേശം 2 ന് എന്തെങ്കിലും നേട്ടമുണ്ടോ ഉണ്ട് കാരണം കമ്പനിക്ക് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് യൂണിറ്റുകളുടെ എണ്ണമാണ് മാനേജ്മെന്റ് വിപണി ഓഹരി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവരുടെ മുൻഗണനയെ ആശ്രയിച്ചിരിക്കുന്നു ഒരുപക്ഷേ അവർ നിർദ്ദേശം 2നെ കുറിച്ചും ചിന്തിച്ചേക്കാം ഇപ്പോൾ നമ്മളുടെ പ്രധാന ലക്ഷ്യം വിവിധ കണക്കുകൂട്ടലുകൾ എളുപ്പമാക്കുക എന്നതാണ് അതിനാൽ മാനേജ്മെന്റിന് ഉചിതമായ തീരുമാനം എടുക്കാം ഇപ്പോൾ നമുക്ക് നിർദ്ദേശം അൽപ്പം മാറ്റാം അതിനാലാണ് കോളം 2 എ നിർമ്മിച്ചത് ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് നിലവിലെ ലാഭമെങ്കിലും നിലനിർത്താൻ കമ്പനി ആഗ്രഹിക്കുന്നു കാരണം ഒരു കമ്പനിയും കുറഞ്ഞ ലാഭമുള്ള ഒരു നിർദ്ദേശം സ്വീകരിക്കാൻ സാധ്യതയില്ല അതിനാൽ ഞാൻ അതേ ലാഭം ഇപ്പോൾ 2200000 ആയി നിലനിർത്തി അതിനുശേഷം നമുക്ക് മറ്റ് കണക്കുകൂട്ടലുകൾ നടത്താം മറ്റ് കണക്കുകൂട്ടലുകൾ എങ്ങനെ നടത്താം നിങ്ങൾക്ക് 2200000 ലാഭം നിലനിർത്തണമെങ്കിൽ കമ്പനി വിൽക്കേണ്ട യൂണിറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും അതിനാൽ ദയവായി കോളം 2 എ ഉണ്ടാക്കുക ഇവിടെ മാറ്റമൊന്നും ഉണ്ടാകില്ല കാരണം മുമ്പത്തെ വേരിയബിൾ വിലയിലും ഈ വേരിയബിൾ വിലയിലും വ്യത്യാസമില്ല സംഭാവന പോലും മാറ്റമില്ലാതെ തുടരും യൂണിറ്റുകളുടെ എണ്ണം എന്തായിരുന്നാലും ഇത് 132596 വരെ പോകും നിങ്ങൾക്ക് ഇത് എങ്ങനെ ലഭിച്ചു ഈ ഭാഗത്തും മാറ്റമില്ല വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല മൊത്തം എഫ് സി സമാനമാണ് ഓരോ യൂണിറ്റിനും സംഭാവന ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല എന്ന് കരുതുന്നു പക്ഷേ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് 72 4 ആണ് നിങ്ങൾക്ക് 2200000 ലാഭ ലക്ഷ്യം നേടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സംഭാവനയാണ് നൽകേണ്ടതെന്ന് പരിശോധിക്കുക 22 അധികം 74 അങ്ങനെ നിങ്ങൾ 9600000 സംഭാവന നേടി 72 4 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 132596 ലഭിക്കും അതിപ്പോൾ ചോദിക്കുന്നില്ലെങ്കിലും കേസിൽ ഒരു കണക്കുകൂട്ടൽ കൂടി നടത്തി നിർദ്ദേശം 2 ചെറുതായി മാറ്റുകയും അതേ ലാഭം നിലനിർത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്താൽ എത്ര യൂണിറ്റുകൾ വിൽക്കണം എന്നതിന് ഉത്തരം 132596 ആയിരിക്കും അത് ശരിയാകും നമുക്ക് ഇപ്പോൾ നിർദ്ദേശം 3 ലേക്ക് പോകാം ഇപ്പോൾ നിർദ്ദേശം 3 ൽ വിൽപ്പന വിലയിൽ 10 ശതമാനം വർദ്ധനവ് ഉണ്ട് ഇത് കൂടുതൽ ആക്രമണാത്മക തന്ത്രമാണ് ഇത് വർദ്ധിപ്പിക്കാൻ തയ്യാറുള്ള കമ്പനികൾ വിൽക്കുന്ന വിലയാണ് പരസ്യത്തിലും മറ്റ് ചെലവുകളിലും കുറച്ച് വർദ്ധനവ് ഉണ്ടാകും ബഡ്ജറ്റിനേക്കാൾ 10 ശതമാനം കൂടുതൽ ലാഭം നേടുന്നതിന് ആവശ്യമായ വിൽപ്പനയുടെ അളവിൽ വർദ്ധനവ് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ കോളം ചെറുതായി ചെറുതാക്കുകയാണ് അതിനാൽ നിർദ്ദേശം 3 ൽ വീണ്ടും വേരിയബിൾ ചെലവ് അടിസ്ഥാനപരമായി സമാനമാണ് നിശ്ചിത ചെലവ് നിങ്ങൾക്ക് വീണ്ടും കണക്കാക്കാൻ കഴിയും അതിനാൽ ഉൽപ്പാദനത്തിൽ വർദ്ധനവുണ്ടാകില്ല വിൽപ്പനയിലെ അഡ്മിൻ വർദ്ധനയിൽ മാറ്റമില്ല നിങ്ങൾക്ക് പുതിയ നിശ്ചിത ചെലവ് 7100000 ആണ് അവർ പുതിയ വിൽപ്പന വില നൽകിയിട്ടുണ്ടോ അതെ കമ്പനി അതിന്റെ വിൽപ്പന വില എത്ര ശതമാനം 10 ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് അവർ പറഞ്ഞു അതായത് പുതിയ വിൽപ്പന വില 167 പുതിയ സംഭാവന കണക്കാക്കുമ്പോൾ അത് 95 2 ആണ് കമ്പനി ബഡ്ജറ്റിൽ 10 ശതമാനം കൂടുതൽ ലാഭം നേടാൻ ആഗ്രഹിക്കുന്നു അതായത് 2200000ൽ നിന്ന് ലാഭം 2420000 ആയി ഉയരും കൂടാതെ 71 എന്ന നിശ്ചിത ചെലവും അതിനാൽ നേടേണ്ട മൊത്തം സംഭാവന 9520000 ആയി മാറുന്നു ചോദ്യം യൂണിറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചായിരുന്നു അതിനാൽ നിങ്ങൾ യൂണിറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ ഓരോ യൂണിറ്റിനും സംഭാവനയുടെ അടിസ്ഥാനത്തിൽ 100000 എന്ന ഉത്തരം ലഭിക്കും അതിനാൽ 10 ശതമാനം കൂടുതൽ ലാഭം നേടുന്നതിന് ആവശ്യമായ വിൽപ്പനയുടെ അളവിൽ വർദ്ധനവ് കണ്ടെത്തുക എന്നതായിരുന്നു ചോദ്യം ഉയർന്ന ലാഭം നേടാൻ കഴിയുന്ന 10000 കമ്പനികൾക്ക് അളവ് കുറഞ്ഞാലും വാസ്തവത്തിൽ വർദ്ധനവ് ആവശ്യമില്ലെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു സംഭാവന എന്തായിരിക്കും പിവിആർ എന്തായിരിക്കും ഇപ്പോൾ പിവിആർ 0 56 ആയി ഗണ്യമായി മെച്ചപ്പെട്ടു കാരണം വില ഉയർന്നതിനാൽ യൂണിറ്റിന് സംഭാവനയും വർദ്ധിച്ചു അതിനാൽ ലാഭത്തിന്റെ അളവ് അനുപാതവും മികച്ചതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു പ്രൊപ്പോസൽ 3 എങ്ങനെ താരതമ്യം ചെയ്യും കമ്പനിക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നതിനാൽ പ്രഥമ ദൃഷ്ട്യാ നല്ല നിർദ്ദേശമാണോ ഇത് പി വി ആർ മെച്ചപ്പെടുത്താനും പ്രാപ്തമാണ് നിർദ്ദേശം 3 ന്റെ ഏക പ്രശ്നം യൂണിറ്റുകളുടെ എണ്ണം കുറഞ്ഞതാണ് അതായത് കമ്പോള വലിപ്പം വിപണി വിഹിതത്തെ ചെറുതായി ചുരുക്കും അതിനാൽ മാനേജ്മെന്റ് അക്കൌണ്ടന്റ് മാരായി കണക്കാക്കി നമ്മൾ മാനേജ്മെന്റിന്റെ വിവിധ തലങ്ങളിലേക്ക് വ്യത്യസ്ത തരം വിവരങ്ങൾ നൽകും തുടർന്ന് മാനേജ്മെന്റ് അതിൽ നടപടിയെടുക്കണം ഇപ്പോൾ നമുക്ക് നിർദ്ദേശം 4 ലേക്ക് പോകാം ഇപ്പോൾ കമ്പനി 20000 യൂണിറ്റുകൾക്കുള്ള സർക്കാർ ഉത്തരവിനായി കോടതിയെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നു നിലവിലുള്ള വിൽപ്പനയെ ഇത് ബാധിക്കില്ല കൂടാതെ ക്രമാനുസൃതമുള്ള നിശ്ചിത ഉൽപാദന ഓവർഹെഡുകൾ 300000 ആയും ലാഭം 100000 ആയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എടുത്ത് എഴുതാവുന്ന ഏറ്റവും കുറഞ്ഞ വില കണ്ടെത്തുക അതിനാൽ ദയവായി കണക്കുകൂട്ടൽ നടത്തുക ഇത് നമുക്ക് നിർദ്ദേശം 4 ലേക്ക് പോകാം നിങ്ങളുടെ സ്വന്തം വേരിയബിൾ ചെലവ് കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് വീണ്ടും സമാനമാണ് ചോദ്യം ഇതാണ് നിങ്ങൾക്ക് എത്ര വില എടുത്തെഴുതാനാകും നിശ്ചിത ചെലവ് എത്രയായിരിക്കും കമ്പനി 100000 ലാഭം നേടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഉൽപ്പാദന ഓവർഹെഡുകളിൽ 30000 വർധനയുണ്ടാകുമെന്നും അവർ പറഞ്ഞു അതിനാൽ മൊത്തം നിശ്ചിത ചെലവ് 300000 മാത്രമായിരിക്കും ലാഭം പ്രതീക്ഷിക്കുന്നത് 100000 ആണ് അതായത് സംഭാവന ലക്ഷ്യം 400000 ആണ് യൂണിറ്റുകളുടെ എണ്ണം എത്രയാണ് അത് 20000 ആണ് അതിനാൽ നിങ്ങൾ സമ്പാദിക്കേണ്ട വിഹിതം 20 രൂപയാണ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന വില 92 മാത്രമാണ് നമ്മളുടെ സാധാരണ വിലകൾ ഏകദേശം 150 ആണെങ്കിലും നമ്മൾക്ക് അത് 92 വരെ ഉദ്ധരിക്കാൻ കഴിയും നിലവിലുള്ള വിൽപ്പനയെ ബാധിക്കാത്തതിനാൽ ഇത് സാധ്യമാണ് അതിനാൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ കഴിയും ഇതിനെ പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് വിളിക്കുന്നു നിങ്ങൾ പുതിയ വിപണി ലക്ഷ്യം വെച്ച് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത ചെലവും പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഓർക്കുക വേരിയബിൾ ചെലവിനും ശമ്പള വർധനവിനായി ഉള്ള ചെലവിനും മതിയായ പണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വളരെ കുറഞ്ഞ വില വാഗ്ദാനം ചെയ്യേണ്ടിവരുന്നു ഇത് വില നിർണയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വേരിയബിൾ ചെലവ് അല്ലെങ്കിൽ മാർജിനൽ ചെലവാണ് അതിനാൽ മൊത്തത്തിൽ നിങ്ങൾ പ്രശ്നം ഒരിക്കൽ കൂടി കാണുകയാണെങ്കിൽ ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾക്കുള്ള വളരെ രസകരമായ ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം നമ്മൾ വ്യത്യസ്ത തീരുമാനങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിച്ചു വിൽപ്പനയിൽ മാറ്റം വരുത്തുക യൂണിറ്റുകളുടെ എണ്ണം മാറ്റുക വിൽപ്പന വിലയിൽ മാറ്റം വരുത്തുക ഒരു നിശ്ചിത ചെലവ് മാറ്റുക എന്ത് വ്യത്യസ്ത വിലകൾ വാഗ്ദാനം ചെയ്യാം അല്ലെങ്കിൽ നിശ്ചിത ലക്ഷ്യം കൈവരിക്കുന്നതിന് എന്തൊക്കെ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഹ്രസ്വകാല തീരുമാനങ്ങൾ മാനേജ്മെന്റ് എടുക്കേണ്ടതുണ്ട് പലപ്പോഴും ഇത് ലാഭ ആസൂത്രണം എന്ന് അറിയപ്പെടുന്നു നമ്മൾ നേരത്തെ സി വി പി വിശകലനം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം കൂടി നിശ്ചിത വില എപ്പോഴും സ്ഥിരമാണ് യൂണിറ്റിന് വേരിയബിൾ ചെലവ് സ്ഥിരമാണ് വിൽപ്പന വില സ്ഥിരമാണ് എന്നിങ്ങനെയുള്ള നിരവധി അനുമാനങ്ങൾ നമ്മൾ നടത്തിയിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ചില അനുമാനങ്ങൾ മാറ്റാം എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അൽപ്പം നീളമുള്ള കയർ നൽകാം അനുമാനങ്ങൾ അൽപ്പം മാറ്റാൻ നിങ്ങളെ അനുവദിക്കുന്നു ഇപ്പോൾ പല അനുമാനങ്ങളും മാറ്റി മറിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഇവിടെ കാണും എന്നിട്ടും സി വി പി വിശകലനത്തിന്റെ സാങ്കേതികത തീരുമാനങ്ങൾ എടുക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കേസുകളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം